ഇപ്പോൾ ഇതൊരു ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടറാണ് ഒരു പുഷ് പുൾ കൺവെർട്ടറിന്റെ കാര്യത്തിന് സമാനമായി സെക്കൻഡറി ഭാഗം മാറ്റമില്ലാതെ തുടരുന്നതും പുഷ് പുൾ കൺവെർട്ടറിന്റെ പ്രാഥമിക ഭാഗം മാത്രം മാറ്റിയിരിക്കുന്നതും നിങ്ങൾ ഇപ്പോൾ കാണുന്നു എനിക്ക് സാമാന്യത നഷ്ടപ്പെടാതെ BJT കളെ MOSFET ആക്കി മാറ്റാൻ സാധിച്ചു അതിനാൽ സർക്യൂട്ടിൽ MOSFET ചിഹ്നങ്ങൾ എങ്ങനെ ഇടാം എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ആശയം ലഭിച്ചു നിങ്ങൾക്ക് തീർച്ചയായും BJT ഉപയോഗിക്കാം നിങ്ങൾക്ക് IGBT യും ഉപയോഗിക്കാൻ കഴിയും MOSFET ന് ഉള്ളിൽ തന്നെ ഇൻറ്റേണൽ ബോഡി ഡയോഡ്സ് ഉണ്ടായിരിക്കും ലീക്കേജ് ഒഴിവാക്കാമെന്നതിന്റെ ഗുണങ്ങളും ഇതിന് ഉണ്ട് അതിനാൽ ഞാൻ ഇവിടെ MOSFET കൂടുതൽ പൊതുവായ അർത്ഥത്തിൽ ഉപയോഗിച്ചു നിങ്ങൾക്കിവിടെ രണ്ടു പവർ സെമികണ്ടക്ടർ സ്വിച്ചസ് Q1 ഉം Q2 ഉം കപ്പാസിറ്റൻസുകൾ C1 ഉം C2 ഉം ഉണ്ട് ഇപ്പോൾ ഈ 2 കപ്പാസിറ്റൻസുകൾ നിങ്ങളുടെ റക്റ്റിഫയർ ഫിൽട്ടർ സർക്യൂട്ടുകളുടെ ഔട്ട്പുട്ടുകളാകാം റക്റ്റിഫയർ ഫിൽട്ടർ സർക്യൂട്ടിന് ഔട്ട്പുട്ടിൽ ഒരു C ഫിൽട്ടർ ഉണ്ട് ചിലപ്പോൾ C ഫിൽട്ടറുകൾ ഈ പകുതിയും പകുതിയും പോലെ തുല്യമായി വിഭജിക്കപ്പെടുന്നു കൂടാതെ വോൾട്ടേജ് സ്ഥിരപ്പെടുത്തുന്നതിന് കുറച്ച് മീറ്റർ രജിസ്റ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് C1 ൽ ഉടനീളം V ഉം C2 ൽ മറ്റൊരു V ഉം ഉണ്ടായിരിക്കാം ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ റക്റ്റിഫയറുകൾ C ഫിൽട്ടർ സൈക്കിളിന്റെ ഔട്ട്പുട്ട് ഭാഗത്തിന്റെ ഭാഗമാകാം നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജും ട്രാൻസ്ഫോർമറും ആയി 2 ഉപകരണങ്ങൾ ചേർത്തിട്ടുണ്ട് ഈ രീതിയിൽ ബ്രിഡ്ജിനു കുറുകെ ബന്ധിപ്പിച്ചിരിക്കുന്ന പുഷ് പുളിലെ പോലെ രണ്ട് കോയിലുകളല്ല ഒരു ഒറ്റ കോയിൽ ആണ് ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി അത്തരമൊരു ബ്രിഡ്ജിനെ ഹാഫ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു കാരണം ഫുൾ ബ്രിഡ്ജിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 4 സ്വിച്ചുകൾക്കുപകരം നിങ്ങൾക്ക് ഹാഫ് ബ്രിഡ്ജസ് ഉണ്ട് അഥവാ സ്വിച്ചുകൾ അതിനാൽ ഹാഫ് ബ്രിഡ്ജ് ഹാഫ് ബ്രിഡ്ജ് വളരെ ലളിതമാണ് ഇപ്പോൾ നമുക്ക് Q1 ഓണാണെന്ന് പറയാം അതിനാൽ Q1 ഓണാകുമ്പോൾ Q2 ഓഫാണ് Q1 ഉം Q2 ഉം ഒരേസമയം ഓണാക്കാൻ കഴിയില്ല കാരണം അത് ഒരു വെർച്വൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഷൂട്ട് ത്രൂ ആകും നിങ്ങളുടെ വിതരണം മോശമാകും അതിനാൽ ഒന്നുകിൽ Q1 ഓണാണ് അല്ലെങ്കിൽ Q2 ഓണാണ് അവ മ്യൂച്ച്വലി എസ്ക്ലൂസീവ് ആയിരിക്കണം Q1 ഓണാണ് അപ്പോൾ Vin ഈ പോയിന്റിലേക്ക് വരുന്നു അതിനാൽ ഡോട്ട് എൻഡ് Vin ലും നോൺ ഡോട്ട് എൻഡ് C1 C2 കോമ്പിനേഷന്റെ മധ്യഭാഗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇതൊരു Vin2 ആണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ Vin ഉണ്ട് നിങ്ങൾക്ക് Vin2 ഉണ്ട് പ്രൈമറിയിൽ ദൃശ്യമാകുന്ന വോൾട്ടേജ് Vin2 ആണ് Vin Vin 2 Vin 2 അത് സെക്കൻഡറി വശത്തേക്ക് n മടങ്ങ് വർദ്ധിപ്പിക്കും അതിനാൽ n2 ഇവിടെ വരുന്നു പോൾ വോൾട്ടേജ് nVin 2 ആണ് അതിനാൽ Vo ndVin 2 നമുക്ക് കിട്ടും ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധമായിരിക്കും ഇത് ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടറിന്റെ പ്രവർത്തനമാണ് Q1 ഓഫാണ് Q2 ഓണാണ് ഡോട്ട് എൻഡ് ഗ്രൌണ്ടിലേക്ക് വലിച്ചിരിക്കുന്നത് കാണാം Vin2 ൽ നോൺ ഡോട്ട് എൻഡ് ആണെന്ന് നിങ്ങൾ കാണും നിങ്ങൾക്ക് 0 മൈനസ് Vin2 ആണ് അതിനാൽ അത് Vin 2 പ്രൈമറിയിലൂടെ വരുന്നു നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആയി വരുന്നു ഡോട്ട് എൻഡ് സംബന്ധിച്ച് അത് കൂടുതൽ പോസിറ്റീവ് ആണ് നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആകുന്നത് അർത്ഥമാക്കുന്നത് സെക്കൻഡറി സൈക്കിളിന്റെ പച്ച ഭാഗം സജീവമാക്കുക എന്നാണ് ഈ രീതിയിൽ കറന്റ് ഒഴുകുകയും ചെയ്യും വീണ്ടും നിങ്ങൾ nVin 2 പോളിൽ ദൃശ്യമാകുന്നതും ഇൻഡക്റ്റർ ഓപ്പറേഷന്റെ ചാർജുകൾ പുഷ് പുൾ സെക്കൻഡറി വശങ്ങൾക്ക് സമാനമായി പുഷ് പുൾ സെക്കൻഡറി കോൺഫിഗറേഷനുമായി സാമ്യമുള്ളതായി കാണാം ഇൻഡക്ടർ നിലവിലുള്ള Q1 Q2 എന്നിവ ഓഫായിരിക്കുമ്പോൾ ഇത് Vin2 -Vin2 എന്നിവയ്ക്കിടയിൽ മാറിക്കൊണ്ടിരിക്കും സെക്കൻഡറിയുടെ 2 പകുതിയിൽ കറന്റ് തുല്യമായി വിഭജിക്കുന്ന പുഷ് പുൾ സന്ദർഭങ്ങളിലെന്നപോലെ സെക്കൻഡറിയിലെ 0 വോൾട്ടേജ് റദ്ദാക്കിയതിനാൽ ഫ്ലക്സ് മാറാത്തതിനാൽ dφdt 0 ആണ് പ്രൈമറിയിലുടനീളമുള്ള വോൾട്ടേജും 0 ആണ് കൂടാതെ Q1 ഓഫ് സ്റ്റേറ്റിൽ Vin - Vin 2 Vin 2 എന്നും രണ്ടും ഓഫായിരിക്കുന്ന സമയത്ത് Vin 2 എന്നിവ കാണും എന്നിരുന്നാലും നിങ്ങൾ Vin 2 ന് Q1 Q2 എന്നിവ റേറ്റ് ചെയ്യരുത് കാരണം Q2 ഓണായിരിക്കുമ്പോൾ Q1 ൽ നമുക്ക് കാണാം ഉദാഹരണത്തിന് Q2 ഈ പോയിന്റിലാണെന്ന് പറയാം അത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൻറെ പൊട്ടൻഷ്യൽ 0 ആണ് ഈ പോയിന്റ് Vin ആണ് ഓണായിരിക്കുമ്പോൾ അതിനു Vin നെ നേരിടണം ഈ പോയിന്റ് Vin ആണ് ഈ പോയിന്റ് ഗ്രൌണ്ടിലാണ് Q2 Vin കൈകാര്യം ചെയ്യണം അതിനാൽ നിങ്ങൾ ഉപകരണം റേറ്റുചെയ്യുമ്പോൾ V ഒന്നുകിൽ പരമാവധി കുറഞ്ഞത് Vin നേക്കാൾ വലുതായിരിക്കണം അതിനാൽ ഹാഫ് ബ്രിഡ്ജ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കണക്റ്റർ കോൺഫിഗറേഷൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ ബ്രിഡ്ജ് കോൺഫിഗറേഷൻ ഈ കപ്പാസിറ്ററുകൾ 2 സ്വിച്ചുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു എന്നതാണ് കപ്പാസിറ്റർ ഡിവൈഡറിന് പകരം 2 അധിക സ്വിച്ചുകൾ Q3 Q4 എന്നിവ ഉപയോഗിച്ച് ഹാഫ് ബ്രിഡ്ജ് കൺവെർട്ടർ ഇപ്പോൾ ഒരു ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടറായി പരിവർത്തനം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം Q1 Q2 Q3 Q4 എന്നിവ ഇപ്പോൾ ഒരു ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ രൂപീകരിക്കുന്നു Q1 ഉം Q2 ഉം ഒരേസമയം ഓണാകുന്ന തരത്തിൽ ഒരിക്കലും നൽകരുതെന്ന് എപ്പോഴും ഓർക്കുക അതിനാൽ ഗ്രൌണ്ടിലേക്ക് Vin ലൂടെ ഷോർട്ട് സർക്യൂട്ടിംഗ് ഉണ്ടാകില്ല ഇതുപോലെ ഈ Vin ൽ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കുന്നതിനായി Q3 Q4 എന്നിവ വീണ്ടും ഒരേസമയം ഓണാകുന്ന തരത്തിൽ നമ്മൾ നൽകരുത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് Q1 Q4 എന്നിവയ്ക്ക് ഒരേ ഗേറ്റ് സിഗ്നൽ നൽകും അതായത് Q1 ഉം Q4 ഉം ഒരേസമയം ഓൺ ചെയ്യുന്നു Q3 Q2 എന്നിവ ഒരേസമയം ഓണാക്കുന്നു അതിനാൽ Q1 ഉം Q4 ഉം ഡോട്ട് സൈഡ് ഓൺ ചെയ്യുമ്പോൾ Vin ലേക്ക് കണക്ട് ചെയ്യുന്നു ഇവിടെ നോൺ ഡോട്ട് എൻഡ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ പ്രൈമറിക്ക് കുറുകെ മുഴുവൻ Vin ഉം വരുന്നത് നിങ്ങൾ കാണുന്നു സെക്കൻഡറിയിൽ വരുന്നത് ഇപ്പോൾ n മടങ്ങ് Vin ആണ് ഡോട്ട് എൻഡ് പോസിറ്റീവ് ആയതിനാൽ ഈ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആണ് ബ്ലൂ ഡയോഡ് കണ്ടക്ട് ചെയ്യും Q3 ഉം Q2 ഉം ഓണായിരിക്കുമ്പോൾ Vp യിലേക്ക് നിങ്ങൾക്ക് n തവണ Vin വരുന്നു Q3 ഓണായിരിക്കുമ്പോൾ നോൺ ഡോട്ട് എൻഡ് Vin ലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നു ഡോട്ട് എൻഡ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇവിടെ ഒരു മൈനസ് Vin വരുന്നത് കാണുന്നു അല്ലെങ്കിൽ നോൺ ഡോട്ട് എൻഡിലും സെക്കൻഡറി വശത്തും പോസിറ്റീവ് Vin ആണ് നോൺ ഡോട്ട് എൻഡ് സൈഡിൽ Vin പോസിറ്റീവ് ആകും പുഷ് പുൾ സെക്കൻഡറി സൈഡ് ഓപ്പറേഷനായി നമ്മൾ കണ്ടതുപോലെ സർക്യൂട്ടിന്റെ പച്ച ഭാഗം സജീവമാക്കുകയും L ചാർജുചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾക്ക് nVin ഉണ്ടായിരിക്കും ndVin ഔട്ട്പുട്ട് Vo ആയിരിക്കും കാരണം ഇതൊരു ബക്ക് കൺവെർട്ടർ പ്രവർത്തനമാണ് അതിനാൽ ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ സ്വിച്ചുകളും ഓഫായിരിക്കുന്ന കാലയളവിൽ ഇൻഡക്റ്റർ നേരത്തെ ചർച്ച ചെയ്തതുപോലെ പുഷ് പുൾ കെയ്സ് ചെയ്യുന്നതിന് പകുതി കറന്റ് നീല വൈൻഡിംഗിലേക്കും മറ്റൊരു പകുതി പച്ച വൈൻഡിങ്ങിലേക്കും ആണ് പോകുന്നത് രണ്ടും വിപരീത മാഗ്നെറ്റിക് സെൻസാണ് അതിനാൽ അവ റദ്ദാക്കുകയും വോൾട്ടേജ് ജനറേറ്റർ 0 ആകുകയും ചെയ്യും കാരണം dφdt 0 വോൾട്ടേജ് ഇവിടെയും 0 ആണ് ഈ സമയത്ത് ഇത് 0 ആയതിനാൽ മറ്റേ അറ്റം Vin ആണെന്ന് നിങ്ങൾ കാണും സ്വിച്ചുകളിലെ വോൾടേജുകളും Vin ആണ് എതിർ സ്വിച്ചുകൾ ഓണായിരിക്കുമ്പോൾ Q3 ഉം Q2 ഉം Vin ആണ് അത് Vin നെ നേരിടണം Q3 ഉം Q2 ഉം ഓണാകുമ്പോൾ Q1 ഉം Q4 ഉം Vin നെ നേരിടണം അതിനാൽ എല്ലാ സ്വിച്ചുകളുടെയും വോൾട്ടേജ് റേറ്റിംഗുകൾ Vin നേക്കാൾ വലുതായിരിക്കണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം പ്രൈമറിയിൽ ഉടനീളം പ്രയോഗിക്കുന്ന വോൾട്ടേജ് Vin ആണ് ഹാഫ് ബ്രിഡ്ജിന്റെ കാര്യത്തിൽ അത് Vin 2 ആയിരുന്നു അതിനാൽ അതേ പവർ റേറ്റിംഗിനും അതേ Vin നും ഒരേ പവർ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് സ്വിച്ചുകളിലൂടെ ഒഴുകുന്ന കറന്റിന്റെ ഇരട്ടി നിങ്ങൾ കാണും കാരണം Vin ഇവിടെ പകുതിയായി അതിനാൽ Iin ഫുൾ ബ്രിഡ്ജിന്റെ കാര്യത്തിൽ സെക്കൻഡറിക്ക് അതേ പവർ ട്രാൻസ്ഫർ ലഭിക്കാൻ പ്രൈമറി കറന്റ് ഇരട്ടിയാക്കേണ്ടതുണ്ട് ഹാഫ് ബ്രിഡ്ജിന് സമാനമായ കറന്റിന്റെ പകുതി സ്വിച്ചുകളിൽ ഒഴുകും സ്വിച്ചുകളുടെ അതേ റേറ്റിംഗിനുള്ള ഹാഫ് ബ്രിഡ്ജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫുൾ ബ്രിഡ്ജ് ഉയർന്ന പവർ കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഫുൾ ബ്രിഡ്ജ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാ 3 കൺവെർട്ടറുകളിലും പുഷ് പുൾ ഹാഫ് ബ്രിഡ്ജ് ഫുൾ ബ്രിഡ്ജ് എന്നിവയിൽ സെക്കൻഡറിയുടെ വശം പ്രവർത്തനത്തിൽ സമാനമാണെന്ന് കാണാം